എല്ലാവർക്കും നമസ്കാരം സോഫ്റ്റ് സ്കിൽസും വ്യക്തിത്വവും വികസിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള എൻ എൽ മൂക്ക് കോഴ്സിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ രവിചന്ദ്രനാണ് ഞാൻ നിങ്ങൾക്ക് കോഴ്സ് നൽകുന്നു നമ്മൾ ഈ കോഴ്സിന്റെ രണ്ടാം ആഴ്ചയിലാണ് തുടർന്ന് ഈ ആഴ്ച അവസാനത്തെ രണ്ട് പ്രഭാഷണങ്ങളുണ്ട് പിന്നെ അവസാനത്തെ രണ്ട് പ്രഭാഷണങ്ങളിൽ സംഘർഷ പരിഹാര വൈദഗ്ധ്യത്തിൽ നിന്ന് നമുക്ക് തുടർച്ചയുണ്ടാകുമെന്ന് ഞാൻ കരുതി മറ്റെന്താണ് സമ്മർദ്ദം കൈകാര്യം ചെയ്യുകയല്ലാതെ സംഘർഷ പരിഹാര കഴിവുകളുടെ തുടർച്ചയായി സമ്മർദ്ദത്തെ ബന്ധപ്പെടുത്തുക അടുത്ത രണ്ട് പ്രഭാഷണങ്ങളിൽ നമ്മൾ സമ്മർദ്ദത്തെക്കുറിച്ച് നോക്കും പിന്നെ നമുക്ക് യഥാർത്ഥത്തിൽ എങ്ങനെ നിയന്ത്രിക്കാം വ്യക്തിത്വം വികസിപ്പിക്കുന്നതിനും സോഫ്റ്റ് സ്കിൽസ് വികസിപ്പിക്കുന്നതിനും പോലും സമ്മർദ്ദം എങ്ങനെ ഉപയോഗിക്കാം ഇപ്പോൾ ഞാൻ ആരംഭിക്കുന്നതിന് മുമ്പ് മുമ്പത്തെ പ്രഭാഷണത്തിൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ വേഗത്തിൽ തിരിച്ചറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ പ്രഭാഷണത്തിൽ സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിനുള്ള മറ്റ് വഴികൾ ഞാൻ ചർച്ച ചെയ്തു മുൻകാലങ്ങളിൽ സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിനുള്ള പൊതുവായ വഴികളെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് മറ്റൊരു രീതിയിൽ ഞാൻ പരിഹാരം ആവശ്യപ്പെടുന്നതിനുപകരം ഊന്നിപ്പറഞ്ഞ ആവശ്യത്തെക്കുറിച്ച് സംസാരിച്ചു ഇൻട്രാ പേഴ്സണൽ ഇൻട്രാഗ്രൂപ്പ് എന്നീ സംഘട്ടനങ്ങളെക്കുറിച്ചും ഞാൻ സംസാരിച്ചു സംഘർഷങ്ങൾ എല്ലാറ്റിലും കഠിനമായത് ഇൻട്രാപഴ്സണൽ ബോണ്ടാണ് എന്ന വസ്തുത ഞാൻ ഊന്നിപ്പറഞ്ഞു അകത്തുള്ള സംഘട്ടനങ്ങളാണ് കീഴടക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളവ പരിഹരിക്കാൻ ബുദ്ധിമുട്ടുള്ളവ പിന്നീട് എന്തുകൊണ്ടാണ് നാം വൈരുദ്ധ്യങ്ങളെ ഒരു നിഷേധാത്മക വീക്ഷണകോണിൽ കാണുന്നത് എന്തുകൊണ്ട് എന്ന് ഞാൻ ചർച്ച ചെയ്തു നിങ്ങൾ വൈരുദ്ധ്യത്തെ ഒരു പോസിറ്റീവ് വീക്ഷണകോണിൽ കാണുകയാണെങ്കിൽ പിന്നെ സംഘർഷത്തിലേക്കുള്ള ഈ പോസിറ്റീവ് വീക്ഷണം വികസിപ്പിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ എന്ന് ഞാൻ നിർദ്ദേശിച്ചു അതിനാൽ ഉയർന്ന തോതിലുള്ള ഉൽപ്പാദനക്ഷമതയ്ക്ക് ഇത് യഥാർത്ഥത്തിൽ അനിവാര്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കും ബന്ധങ്ങളിൽ അടുപ്പം സുഗമമാക്കുകയും അത് നിങ്ങളുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ പരിഹാരമാക്കുന്ന ചില തരങ്ങൾ ഒഴിവാക്കൽ ഉൾച്ചേർക്കൽ തുടങ്ങിയ വളരെ വേഗത്തിലുള്ള ചർച്ച നടത്തി ആക്രമിക്കുക സഹകരിക്കുക മത്സരിക്കുക തുടർന്ന് വിട്ടുവീഴ്ച ചെയ്യുക ഏറ്റവും മികച്ചത് തീർച്ചയായും നിങ്ങൾ സഹകരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് ഒരുപക്ഷേ ഏറ്റവും മികച്ചതാണ് എന്നാൽ സാഹചര്യത്തെ ആശ്രയിച്ച് ചിലപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടിവരുമെന്നും ഞാൻ പറഞ്ഞു സൌകര്യപ്രദമായിരിക്കുക ചിലപ്പോൾ നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യേണ്ടിവന്നേക്കാം പ്രത്യേകിച്ച് കുടുംബത്തിന്റെ കാര്യത്തിൽ ബന്ധങ്ങളും പിന്നെ സൌഹൃദവും ചിലപ്പോൾ സംഘർഷം പരിഹരിക്കുന്നതിനായി നിങ്ങൾ ത്യാഗം ചെയ്യുന്നു അവസാനം നിങ്ങൾ സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിൽ വിദഗ്ദ്ധനാകാൻ ശ്രമിക്കണമെന്ന് ഞാൻ പറഞ്ഞു സംഘർഷങ്ങൾ ഉൾക്കൊള്ളാനും നിങ്ങളുടെ കഴിവുകൾ പരീക്ഷിക്കാനും തുടർന്ന് പരിഹരിക്കാൻ ശ്രമിക്കാനും ഞാൻ നിർദ്ദേശിച്ചു എന്തുകൊണ്ട് സംഘർഷങ്ങൾ ഒടുവിൽ നിങ്ങളുടെ വ്യക്തിത്വത്തെ ശക്തിപ്പെടുത്തുന്നതിനുള്ള മറഞ്ഞിരിക്കുന്ന അവസരങ്ങളാണ് സംഘർഷങ്ങൾ യോജിച്ച ബന്ധങ്ങൾ വളർത്തിയെടുക്കാൻ നിങ്ങളെ സഹായിക്കുന്നു ഈ രണ്ട് വശങ്ങളും നിങ്ങളുടെ വ്യക്തിപരവും തൊഴിൽപരവുമായ കാര്യങ്ങൾക്ക് യഥാർത്ഥത്തിൽ പ്രധാനമാണ് നിങ്ങളുടെ തൊഴിലുടമ നിങ്ങളിൽ ഒരു മികച്ച ഗുണത്തിനായി തിരയുകയാണെങ്കിൽ ആ ഗുണനിലവാരം അദ്ദേഹത്തിന് മാത്രമേ നൽകാൻ കഴിയൂ വൈരുദ്ധ്യ പരിഹാരമാകാവുന്ന ജോലിക്കായി നിങ്ങളെ തിരഞ്ഞെടുക്കുന്നതിൽ നിങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ഇപ്പോൾ അതിനൊപ്പം നിങ്ങൾ സംഘർഷ പരിഹാരത്തിൽ മികച്ചവരാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യില്ലെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കും നിങ്ങൾക്ക് കൂടുതൽ ജോലിയോ അധിക ജോലിയോ നൽകപ്പെടുമ്പോഴോ അല്ലെങ്കിൽ ഒരു പുതിയ ജോലി ഉണ്ടാകുമ്പോഴോ സമ്മർദ്ദം അനുഭവപ്പെടും നിങ്ങൾക്ക് നൽകപ്പെടുന്ന തരത്തിലുള്ള ജോലി അതിനാൽ സമ്മർദ്ദത്തെ നേരിടാൻ നിങ്ങൾക്ക് ചില സോഫ്റ്റ് കഴിവുകൾ ഉണ്ടെന്നും അദ്ദേഹം പ്രതീക്ഷിക്കുന്നു അതിനാൽ ഇതിലും അടുത്തതിലും നമ്മൾ ആദ്യം മനസിലാക്കാൻ ശ്രമിക്കും തുടർന്ന് സമ്മർദ്ദം എന്താണെന്ന് കൈകാര്യം ചെയ്യാൻ ശ്രമിക്കും ഇപ്പോൾ സമ്മർദ്ദത്തെക്കുറിച്ചുള്ള ഒരുതരം സ്വയം അവബോധത്തിലേക്ക് പലരും ചിന്തിക്കുന്നത് ഓ എനിക്ക് സമ്മർദ്ദമില്ല ഞാൻ വളരെയധികം സമ്മർദ്ദത്തിലാണെന്ന് ചിലർ കരുതുന്നു ചില ആളുകൾ ചോദിക്കുന്നു എന്താണ് സമ്മർദ്ദം ഒരുപക്ഷേ ഞാൻ ഭാഗികമായി സമ്മർദ്ദത്തിലായിരിക്കാം പക്ഷേ എനിക്ക് അതിനെക്കുറിച്ച് ഉറപ്പില്ല ഇപ്പോൾ ഞാൻ നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കട്ടെ എന്നിട്ട് നിങ്ങൾ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നുവെന്ന് നിങ്ങൾ കാണും നിങ്ങളുടെ പ്രതികരണത്തെ ആശ്രയിച്ച് നിങ്ങൾക്ക് ആവൃത്തി ശ്രദ്ധിക്കാം ഉദാഹരണത്തിന് നിങ്ങൾക്ക് എത്ര തവണ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകും അപ്പോൾ നിങ്ങൾ നിങ്ങൾ വളരെയധികം സമ്മർദ്ദത്തിലാണോ കുറഞ്ഞ സമ്മർദ്ദത്തിലാണോ അതോ അത്രയധികം സമ്മർദ്ദത്തിലാണോ എന്ന് അളക്കാൻ കഴിയും ഇപ്പോൾ സമ്മർദ്ദത്തെക്കുറിച്ച് സ്വയം അവബോധം സൃഷ്ടിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ ചില ചോദ്യങ്ങൾ നോക്കൂ എന്നോട് ഇത്രയധികം ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല മറിച്ച് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു ഇവ സാധാരണമാണ്ഃ മറ്റുള്ളവരോട് നിങ്ങൾക്ക് ദേഷ്യം തോന്നുന്നുണ്ടോ എന്ന് സ്വയം ചോദിക്കുക ചിലപ്പോൾ ഒരു കാരണവുമില്ല നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുകയും തുടർന്ന് നിങ്ങൾ ആദ്യം കാണുന്ന വ്യക്തിയെ വെറുതെ പരിഹസിക്കുകയും ചെയ്യുന്നു അവൻ അല്ലെങ്കിൽ അവൾ നിങ്ങൾ വളരെ പ്രകോപിതനാകുകയും തുടർന്ന് നിങ്ങൾ ആ വ്യക്തിയെ ശല്യപ്പെടുത്തുകയും നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ ആശ്ചര്യപ്പെടുകയും ചെയ്യുന്നു നിങ്ങൾക്ക് എന്താണ് കുഴപ്പം നിങ്ങൾക്ക് ഇടയ്ക്കിടെ തലവേദന അനുഭവപ്പെടുന്നുണ്ടോ അതിനാൽ എല്ലാ മനുഷ്യർക്കും ഇടയ്ക്കിടെ തലവേദന വരുന്നു അത് ഒരു സാധാരണ കാര്യമാണ് പക്ഷേ അത് സംഭവിക്കുന്നു നിങ്ങൾക്ക് തലവേദന വരുന്നു തുടർന്ന് നിങ്ങൾക്ക് ഈ പിളരുന്ന തലവേദന ലഭിക്കുന്നുണ്ടോ ചിലപ്പോൾ നിങ്ങൾ അത് കണ്ടെത്തുന്നു ഇത് വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയില്ല നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ നിങ്ങൾ പെട്ടെന്ന് ശരീരഭാരം കുറയ്ക്കുകയാണോ അതോ ഭാരം വർദ്ധിപ്പിക്കുകയാണോ ഇവ രണ്ടും നിങ്ങളുടെ ഭക്ഷണശീലവുമായി വീണ്ടും ബന്ധപ്പെട്ടിരിക്കുന്നു പെട്ടെന്ന് നിങ്ങൾ അമിതമായി ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നു അതായത് നിങ്ങൾ എന്തും പോലെ അമിതമായി ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നു അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഭക്ഷണത്തോടുള്ള താൽപര്യം പൂർണ്ണമായും നഷ്ടപ്പെടുന്നു തുടർന്ന് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുകയും തുടർന്ന് നിങ്ങൾ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു കുറഞ്ഞത് അല്ലെങ്കിൽ നിങ്ങൾ ജങ്ക് ഫുഡ് എന്ന് വിളിക്കുന്നത് കഴിക്കുകയും നിങ്ങളുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇടയ്ക്കിടെ ജലദോഷം അനുഭവപ്പെടുന്നുണ്ടോ നിങ്ങൾക്ക് ഇടയ്ക്കിടെ അസുഖം വരാറുണ്ടോ പിന്നെ നിങ്ങൾക്ക് അസുഖം വന്നാൽപ്പോലും സുഖം പ്രാപിക്കാൻ സമയമെടുക്കുന്നത് നിങ്ങളാണോ നിങ്ങൾ എല്ലായ്പ്പോഴും കിടക്കയിലാണ് അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്തുവരാൻ കഴിയില്ല പിന്നെ നിങ്ങൾ പുറത്തു വന്നാലും നിങ്ങൾക്ക് ക്ഷീണം അനുഭവപ്പെടുന്നു തുടർന്ന് നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നു ഊർജ്ജസ്വലതയോടെ തിരിച്ചുപോവുക ചിലപ്പോഴൊക്കെ നിങ്ങൾ ആളുകളോട് ഇങ്ങനെ ആക്രോശിക്കാറുണ്ടോ അപ്പോൾ നിങ്ങൾക്ക് രാത്രിയിൽ നല്ല ഉറക്കം ലഭിക്കുന്നുണ്ടോ നിങ്ങൾക്ക് രാത്രിയിൽ ഉറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾ പെട്ടെന്ന് എഴുന്നേൽക്കുന്നത് ഒരുപക്ഷേ ഒരു പേടിസ്വപ്നമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതയുളവാക്കുന്ന ചിന്തയോ ആകാം പിന്നെ നിങ്ങൾക്ക് ഉറങ്ങാൻ പോലും കഴിയില്ല അല്ലെങ്കിൽ ഏറ്റവും മോശം സാഹചര്യം നിങ്ങൾക്ക് പ്രശ്നമുണ്ട് നിങ്ങൾ പരമാവധി ശ്രമിച്ചാലും ചുറ്റുപാടുകൾ മാറ്റിയാലും നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയില്ല വളരെ ആഴത്തിലുള്ള ഉറക്കത്തിലേക്ക് വീഴുക ഇത് തടസ്സപ്പെട്ട ഉറക്കത്തെ അസ്വസ്ഥമാക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ നിങ്ങൾ ഇടയ്ക്കിടെ താക്കോൽ നഷ്ടപ്പെടുന്ന വ്യക്തിയാണോ അതോ തെറ്റായി സ്ഥാപിക്കുകയും തിരയുകയും ചെയ്യുന്ന ആളാണോ താക്കോൽ പേന ഉദാഹരണത്തിന് പലപ്പോഴും പേന നഷ്ടപ്പെടുന്നു ഈ ദിവസങ്ങളിൽ മൊബൈലുകൾ നിങ്ങൾ നിങ്ങളുടെ മൊബൈലുകൾ തെറ്റായി സ്ഥാപിക്കുന്നുണ്ടോ അതോ പലപ്പോഴും നിങ്ങളുടെ മൊബൈൽ നഷ്ടപ്പെടുന്നുണ്ടോ മൊബൈൽ 10 വർഷത്തേക്ക് സൂക്ഷിക്കുന്ന ആളുകളുണ്ട്ഃ അവർ ആദ്യം വാങ്ങിയതാണ് മറ്റുള്ളവർ ഉണ്ട് തീർച്ചയായും അവർ ഫാഷൻ അനുസരിച്ച് അത് മാറ്റുന്നു പക്ഷേ മൊബൈലുകൾ നഷ്ടപ്പെടുന്നതിനാൽ മാറുന്ന ആളുകളുണ്ട് നിങ്ങളും അങ്ങനെ തന്നെയാണോ പിന്നെ പൊതുവേ നിങ്ങൾ ചെയ്യുന്ന ഒരു ജോലിയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലേ പലപ്പോഴും നിങ്ങൾക്ക് ആളുകളിൽ താൽപര്യം നഷ്ടപ്പെടുന്നു ചിലപ്പോൾ ചിലരെ കണ്ടുമുട്ടാൻ നിങ്ങൾ ഭയപ്പെടുന്നു ആളുകളോ ഇത്രയധികം ഇമെയിലുകളോടും നിരവധി ഫോൺ കോളുകളോടും പ്രതികരിക്കേണ്ടി വരുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം തോന്നുന്നുണ്ടോ ഒരേ സമയം പങ്കെടുക്കേണ്ട നിരവധി ജോലികൾ പിന്നെ ആരെങ്കിലും നിങ്ങളെ ഒരു ഔട്ട്ലെറ്റിനായി വിളിക്കുമ്പോൾ നിങ്ങൾ ഇടയ്ക്കിടെ മാനസികാവസ്ഥയിലാകുന്നുണ്ടോ എനിക്ക് ഈ പാർട്ടി ആസ്വദിക്കാൻ കഴിയാത്ത മാനസികാവസ്ഥയിലല്ലെന്ന് നിങ്ങൾ പാർട്ടിക്ക് പോലും വിളിക്കുന്നു അപ്പോൾ നിങ്ങൾ പതിവായി മാനസികാവസ്ഥയിലാകുന്ന തരത്തിലുള്ള ആളാണോ മിക്ക ചോദ്യങ്ങൾക്കും നിങ്ങളുടെ ഉത്തരം അതെ എന്നും ആവൃത്തി അനുസരിച്ച് ഉണ്ടെങ്കിൽ എന്നും ഉണ്ടെങ്കിൽ ആവൃത്തി ഇടത്തരം ആവൃത്തി കുറഞ്ഞ ആവൃത്തി നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളാണെന്ന് നിങ്ങൾക്ക് പറയാം സമ്മർദ്ദം ചെലുത്തി നിങ്ങൾ സമ്മർദ്ദത്തിലാണ് അപ്പോൾ നിങ്ങൾ എത്ര തവണ നിൽക്കുന്നു എന്നതിനെ ആശ്രയിച്ച് നിങ്ങൾ ഇപ്പോൾ തീരുമാനിക്കണം ഞാൻ ചോദ്യങ്ങൾ ചോദിച്ച ചില രീതികളിൽ പെരുമാറുക നിങ്ങൾ എത്രമാത്രം സമ്മർദ്ദത്തിലാണെന്ന് നിങ്ങൾക്കറിയാം ഉയർന്ന സമ്മർദ്ദം മിതമായ സമ്മർദ്ദം അല്ലെങ്കിൽ കുറഞ്ഞ സമ്മർദ്ദം ഇപ്പോൾ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ചില സംശയങ്ങൾ നീക്കാൻ ഞാൻ ശ്രമിക്കും നമുക്കെല്ലാവർക്കും സമ്മർദ്ദമുണ്ടോ അതെ തീർച്ചയായും ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ പോകുന്നു പക്ഷേ അതിലേക്ക് പോകുന്നതിനുമുമ്പ് എന്താണ് ഇത് സമ്മർദ്ദമാണോ സമ്മർദ്ദം മാനസിക സമ്മർദ്ദമാണ് മാനസികമായി നിങ്ങൾക്ക് വളരെയധികം സമ്മർദ്ദം അനുഭവപ്പെടുന്നു ഇത് വൈകാരിക ഉത്കണ്ഠയാണ് നിങ്ങൾ വളരെയധികം ഉത്കണ്ഠാകുലരാണ് ശാരീരികമായി ഈ സമ്മർദ്ദം നിങ്ങളെ ആക്രമിക്കുമ്പോൾ അത് ഒരുതരം സമ്മർദ്ദത്തിന് കാരണമാകുന്നു ഇപ്പോൾ ഇതെല്ലാം സംഭവിക്കുന്നത് സാഹചര്യപരമായ ആവശ്യങ്ങൾ തമ്മിലുള്ള അസന്തുലിതാവസ്ഥ മൂലമാണ് അതായത് ആവശ്യങ്ങളുണ്ട് അത് പരിസ്ഥിതിയിൽ നിന്നും അത് കൈകാര്യം ചെയ്യാനുള്ള വ്യക്തിയുടെ കഴിവിൽ നിന്നും നിങ്ങൾക്ക് വരുന്നു അതിനാൽ അതിനോട് പ്രതികരിക്കാൻ ആവശ്യപ്പെടുന്ന ആവശ്യങ്ങളെ നേരിടാൻ നിങ്ങൾക്ക് കഴിയില്ല ഒരു നിർദ്ദിഷ്ട പ്രതീക്ഷിച്ച രീതിയിൽ നിങ്ങൾ സമ്മർദ്ദത്തിലാകുന്നു സമ്മർദ്ദത്തെ മറ്റൊരു രീതിയിൽ നോക്കുക എന്താണ് സമ്മർദ്ദം ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് വിമാനത്താവളത്തിൽ എത്തേണ്ട ഒരു സാഹചര്യം നമുക്ക് സങ്കൽപ്പിക്കാം ഒരു മണിക്കൂർ സമയം ലഭിച്ചു എന്നാൽ അതിനുമുമ്പ് നിങ്ങൾ നിങ്ങളുടെ ഓഫീസിലെ 50 ഫയലുകളിൽ സൈൻ ഇൻ ചെയ്യണം സംസാരിക്കുക 10 പേർ നിങ്ങളുടെ അഭാവത്തിൽ അവർക്ക് എന്തു ജോലിയാണ് ചെയ്യേണ്ടതെന്ന് അവരോട് പറയുക കുറച്ച് ആളുകളുണ്ട് ആരാണ് ടാസ്ക് ചെയ്തിരുന്നത് അവർ ടാസ്ക് പൂർത്തിയാക്കുന്നതുവരെ നിങ്ങൾ കാത്തിരിക്കണം തുടർന്ന് നിങ്ങൾക്ക് അവയിൽ ചിലതിൽ ഒപ്പിടുക എന്നിട്ട് നിങ്ങൾ പൂർത്തിയാക്കിയെന്ന് പറയാം ശരി അവസാന നിമിഷം നിങ്ങൾ അവയെല്ലാം പൂർത്തിയാക്കി പിന്നെ നിങ്ങൾ കാറിൽ തന്നെ നിങ്ങൾ പോകുകയാണ് പക്ഷേ കാർ അതിനനുസരിച്ച് പോകുന്നില്ല ട്രാഫിക് ജാം ഉള്ളതിനാൽ നിങ്ങൾക്ക് വിമാനത്താവളത്തിൽ എത്താൻ കഴിയുന്ന പ്രതീക്ഷിക്കുന്ന വേഗതയിലേക്ക് അതിനാൽ അത് വളരെ സാവധാനത്തിലാണ് നീങ്ങുന്നത് നിങ്ങൾ ഗതാഗതക്കുരുക്കിൽ അകപ്പെടുന്നു നിങ്ങൾ എയർപോർട്ടിൽ എത്താൻ പോകുമ്പോൾ നിങ്ങളുടെ ഭാര്യയിൽ നിന്ന് പരിഭ്രാന്തി കോൾ വരുന്നു അവൾ പറയുന്നു അവൾക്ക് സുഖമില്ലെന്നും അവളോടൊപ്പം ആശുപത്രിയിൽ പോകാൻ നിങ്ങൾക്ക് കുറച്ച് സമയമുണ്ടോ എന്ന് അറിയാൻ അവൾ ആഗ്രഹിക്കുന്നു കാരണം അവൾ ഒരു പുതിയ സ്ഥലത്താണെന്നും അപ്പോൾ അവൾക്ക് ആ ഭാഷ അറിയില്ലെന്നും നമുക്ക് പറയാം അവർ സംസാരിക്കുന്നു എന്നിട്ട് നിങ്ങൾ കൂടെ വരണമെന്ന് അവൾ ആഗ്രഹിക്കുന്നു തുടർന്ന് ഡോക്ടറുമായി സംസാരിക്കുന്നു അവൾ ഭയപ്പെടുന്നു ആശുപത്രിയിൽ പോകാൻ ഇപ്പോൾ നിങ്ങൾ എന്തു ചെയ്യും ആ സുപ്രധാന യാത്ര നിങ്ങൾക്ക് നഷ്ടമാകുമോ നിങ്ങൾ ഭാര്യയെ കാണാൻ പോകുമോ ഇത് കൈകാര്യം ചെയ്യുന്ന ഫ്ലൈറ്റ് നിങ്ങൾക്ക് പിടിക്കാൻ കഴിയുമോ അതിനാൽ ഈ കാര്യങ്ങളെല്ലാം പരിഹാരങ്ങളുണ്ട് ഉദാഹരണത്തിന് നിങ്ങൾക്ക് ആരെയെങ്കിലും നിയോഗിക്കാം അതിൽ പങ്കെടുക്കാൻ നിങ്ങളുടെ ഭാര്യയുടെ അടുത്ത് നിങ്ങൾക്ക് വിമാനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കൈകാര്യം ചെയ്യാൻ കഴിയും വേഗത്തിൽ പോകുന്നതിലൂടെ എന്നാൽ ആ നിമിഷം നിങ്ങളുടെ മനസ്സ് പ്രത്യേകിച്ച് കോൾ ചെയ്യുമ്പോൾ ചിന്തിക്കില്ല ആശുപത്രിയിൽ പോകാൻ നിങ്ങളുടെ സാന്നിധ്യം ആവശ്യമാണെന്ന് പറഞ്ഞ് വരുന്നു തുടർന്ന് നിങ്ങൾ ഇവിടെ പോകേണ്ടതുണ്ട് നിങ്ങൾ ഒരു വൈകാരിക ധർമ്മസങ്കടത്തിലാണ് മാനസിക സമ്മർദ്ദത്തിലാണ് അപ്പോൾ നിങ്ങൾക്ക് അറിയില്ല എന്താണ് ചെയ്യേണ്ടത് അതിനാൽ അത് സമ്മർദ്ദകരമായ സാഹചര്യമാണ് ഇപ്പോൾ വ്യത്യസ്ത ആളുകൾ വ്യത്യസ്ത തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ നേരിടുന്നു എന്നാൽ നമുക്ക് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാം നിങ്ങൾ ചോദിച്ചേക്കാവുന്ന ആദ്യത്തെ ചോദ്യം മനുഷ്യൻ മാത്രമാണോ സമ്മർദ്ദത്തിലാകുന്നത് എന്നതാണ് മനുഷ്യർക്ക് മാത്രമേ സമ്മർദ്ദമുണ്ടാകൂ ഉദാഹരണത്തിന് സസ്യങ്ങളും മൃഗങ്ങളും അതെ തീർച്ചയായും സസ്യങ്ങൾ പോലും സമ്മർദ്ദത്തിലാകുന്നു വിത്തുകൾ വിതയ്ക്കുകയും തുടർന്ന് ഉപരിതല ജലം ശരിയായി ഒഴിക്കുകയോ വെള്ളം ഒഴിക്കുകയോ ചെയ്യുന്നില്ലെന്ന് നമുക്ക് പറയാം ഒഴിക്കുന്നു പക്ഷേ ആരെങ്കിലും കുറച്ച് കല്ലുകളോ മറ്റോ ഇടുന്നു വിത്തിന് വളരാൻ കഴിയില്ല അത് സമ്മർദ്ദത്തിലാണ് ഇപ്പോൾ ആവശ്യത്തിന് സൂര്യപ്രകാശം ഇല്ല ആവശ്യത്തിന് വെള്ളം ഒഴിക്കുന്നില്ല ആവശ്യത്തിന് വളം ഇല്ല തന്നിരിക്കുന്നു അതിനാൽ നിങ്ങൾ ചെടിക്ക് സമ്മർദ്ദം നൽകുന്നു അതിനാൽ ചില സസ്യങ്ങൾ പുറത്തുവരികയും അവ അതിജീവിക്കുകയും ചെയ്യുന്നു എന്നാൽ ചില സസ്യങ്ങൾ മരിക്കുന്നു ഇലകൾ വാടിപ്പോകുമ്പോൾ അവയുടെ ഊർജ്ജം നഷ്ടപ്പെടുന്നു അവ വളരുന്നില്ല അവ താഴേക്ക് വീഴുന്നു ഇപ്പോൾ സസ്യങ്ങളും സമ്മർദ്ദത്തിലാകുന്നു പക്ഷേ മൃഗങ്ങളുടെ കാര്യമോ പക്ഷികളുടെ കാര്യമോ അതെ എല്ലാ ജീവജാലങ്ങളെയും ആക്രമിക്കുന്ന ഒരുതരം ബാഹ്യ ഉത്തേജകങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം തുടർന്ന് അവരോട് പ്രതികരിക്കാൻ അവർ വെല്ലുവിളിക്കപ്പെടുന്നു അതിനാൽ അവർ സമ്മർദ്ദത്തിലാണ് നിങ്ങൾ ഒരു ചിത്രശലഭത്തെ പിടിക്കുമ്പോഴോ ചെറിയ കുട്ടികൾ പിടിച്ച് കളിക്കാൻ ശ്രമിക്കുമ്പോഴോ പോലെയുള്ള ഒരു ചെറിയ കാര്യം പോലും അവർ ചിത്രശലഭങ്ങൾ കടുത്ത സമ്മർദ്ദത്തിലാണ് നിങ്ങൾ അത് ഉപേക്ഷിക്കുമോ അതിനുശേഷം അത് ജീവിച്ചിരിക്കുമോ നിങ്ങൾ ജീവിച്ചിരിക്കുമോ എന്ന് നിങ്ങൾ ആശ്ചര്യപ്പെടുന്നു ചിത്രശലഭത്തിന്റെ ചിറകുകൾ നശിപ്പിക്കും അങ്ങനെ പറക്കാനുള്ള ഊർജ്ജം നഷ്ടപ്പെടും നിങ്ങൾ എന്താണ് അത് ചെയ്യാൻ പോകുമ്പോൾ അത് കടുത്ത സമ്മർദ്ദത്തിലാണ് ഉദാഹരണത്തിന് കുതിരസവാരി പോലുള്ള ഒരു ലളിതമായ കായികവിനോദം പോലും നിങ്ങൾക്ക് കുതിര അതിഭീകരമാണ് സമ്മർദ്ദം ഒരുപക്ഷേ അത് ക്ഷീണിതമായിരിക്കാം പക്ഷേ കുതിര വേഗത്തിൽ ഓടുകയും മൽസരത്തിൽ വിജയിക്കുകയും ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അത് വേഗത്തിൽ ഓടുന്നില്ലെങ്കിൽ നിങ്ങൾ ജയിക്കാൻ പോകുന്ന മത്സരത്തിൽ വിജയിക്കുകയാണെങ്കിൽ നിങ്ങൾ വിജയിക്കുമെന്ന് അതിന് അറിയാം കിക്ക് ചെയ്യാൻ പോകുന്നു അതിനാൽ അത് ലഭിക്കാൻ ഭയപ്പെടുന്നു നിങ്ങൾ ശാരീരിക സമ്മർദ്ദം നൽകാൻ പോകുന്നു അത് സമ്മർദ്ദത്തിലാണ് പശുവിനെ കറക്കുന്നത് പോലെയുള്ള മറ്റൊരു ലളിതമായ പ്രവർത്തനം നോക്കുക പശുവും സമ്മർദ്ദത്തിലാണ് എന്തുകൊണ്ടാണ് പശു സമ്മർദ്ദത്തിലാകുന്നത് കാരണം നിങ്ങൾ മുഴുവൻ പാലും പുറത്തെടുത്താൽ അതിന് എന്ത് നൽകുമെന്ന് അവർ ചിന്തിക്കുന്നു കാളക്കുട്ടിയോ അതിനാൽ നിങ്ങൾ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ അത് മനുഷ്യർ മാത്രമല്ല എല്ലാ സസ്യങ്ങളും എല്ലാ മൃഗങ്ങളും ആശ്രയിച്ചിരിക്കുന്നു സമ്മർദ്ദത്തിൽ പരിസ്ഥിതിയിൽ നിന്ന് അവർക്ക് ലഭിക്കുന്ന ഉത്തേജനം അവർ സമ്മർദ്ദത്തിലാകുന്നു ഇപ്പോൾ മറ്റൊരു ചോദ്യത്തിലേക്ക് വരുമ്പോൾ സമ്മർദ്ദത്തെക്കുറിച്ച് ഒരു തെറ്റിദ്ധാരണയുണ്ട് ആളുകൾ എന്നോട് ഈ ചോദ്യം ചോദിക്കുന്നുഃ ചില തരത്തിലുള്ള മനുഷ്യർക്ക് മാത്രമേ സമ്മർദ്ദം അനുഭവപ്പെടുകയുള്ളൂ പ്രത്യേകിച്ചും മാനേജ്മെന്റിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന പ്രശസ്തമായ മനഃശാസ്ത്രപരമായ തരങ്ങളുണ്ട് ടൈപ്പ് എ ടൈപ്പ് ബി ടൈപ്പ് എബി വ്യക്തിത്വങ്ങൾ ഉണ്ട് അതിനാൽ ടൈപ്പ് എ ഗോ ഗെറ്റർ ആണ് വളരെ ആക്രമണാത്മകമാണ് കാര്യങ്ങൾ ആഗ്രഹിക്കുന്നു തുടർന്ന് അത് നേടാൻ ആഗ്രഹിക്കുന്നു പലതും വേഗത്തിൽ അതിനാൽ എല്ലായ്പ്പോഴും പ്രവേശിക്കുന്നത് എ തരം വ്യക്തിയാണെന്ന് ഒരുതരം ചിന്തയുണ്ട് സമ്മർദ്ദം ഇതിന് വിപരീതമായി ബി തരം വ്യക്തി പൊതുവെ ശാന്തനും ശാന്തനുമാണെന്ന വിശ്വാസമുണ്ട് സഹിഷ്ണുതയുള്ള തരം രോഗിയെ ബാക്ക് ടൈപ്പ് ചെയ്യുക ബി തരം വ്യക്തി അങ്ങനെ ചെയ്യുന്നില്ലെന്ന് അവർ പറയുന്നു എന്തെങ്കിലും സമ്മർദ്ദം ഉണ്ടാകുമോ ഇല്ലയോ അവർ പറയുന്ന തരം എബി നേട്ടമുണ്ടാക്കുന്നു പക്ഷേ സമ്മർദ്ദത്തിലല്ല ഓഫീസ് ജോലിയോടൊപ്പം ജോലിയും ജീവിതവും കുടുംബവും എങ്ങനെ സന്തുലിതമാക്കാമെന്ന് എ ബി തരം വ്യക്തി പഠിച്ചു അതിനാൽ ഇത്തരത്തിലുള്ള എബി വ്യക്തിക്ക് മിക്കവാറും ഒരു സമ്മർദ്ദവും ലഭിക്കുന്നില്ലെന്ന് അവർ പറയുന്നു ഇപ്പോൾ ഞാൻ പറയും നിങ്ങൾ വിശ്വസിക്കരുത് എന്നിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കരുത് ഒരു തരം എ വ്യക്തി അല്ലെങ്കിൽ ടൈപ്പ് ബി വ്യക്തി അല്ലെങ്കിൽ ടൈപ്പ് എബി വ്യക്തി ഇപ്പോൾ ചിലപ്പോൾ ഇത് രക്തഗ്രൂപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് അവർ പറയുന്നു തുടർന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ കഴിയും നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള രക്തഗ്രൂപ്പാണ് ഉള്ളതെന്ന് അറിയുക തുടർന്ന് നിങ്ങൾക്ക് അതുമായി ബന്ധിപ്പിക്കാൻ കഴിയും ഞാൻ നിങ്ങളോട് പറയുന്നു എ തരം രക്തഗ്രൂപ്പ് വളരെ മടിയനും ശാന്തനും ശാന്തനുമായിരുന്നു എന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ഒന്നും ചെയ്യുന്നില്ല തുടർന്ന് ടൈപ്പ് ബി ആളുകൾ കൂടുതൽ സജീവവും കൂടുതൽ ഊർജ്ജസ്വലരും കൂടുതൽ നേട്ടമുണ്ടാക്കുന്നവരുമാണ് അതിനാൽ ഒരു വ്യക്തി എ എന്ന് ടൈപ്പ് ചെയ്യാമെന്ന് പറഞ്ഞതിൽ ചില പദാർത്ഥങ്ങൾ ഉണ്ടായിരിക്കാം ആർക്കാണ് അത് ലഭിക്കുക നമ്മൾ അത് ഈ രീതിയിൽ എടുക്കേണ്ടതുണ്ട് ഒരുപക്ഷേ കൂടുതൽ ഉള്ള വ്യക്തി ആക്രമണാത്മകവും കുറഞ്ഞ സമയത്തിനുള്ളിൽ കാര്യങ്ങൾ നേടുന്നതിൽ കൂടുതൽ താൽപ്പര്യമുള്ളതും കൂടുതൽ സമ്മർദ്ദം നേടാൻ സാധ്യതയുണ്ട് മറ്റുള്ളവരെക്കാൾ എന്നാൽ ഇന്നത്തെ അന്തരീക്ഷത്തിൽ നിങ്ങൾ അത്രയധികം വിശ്വസിക്കണമെന്ന് ഞാൻ പറയില്ല നിരവധി കാര്യങ്ങളാൽ നമ്മൾ പൂർണ്ണമായും ആക്രമിക്കപ്പെടുന്നു ഉദാഹരണത്തിന് നിങ്ങൾക്ക് ലഭിക്കുന്ന ഇ മെയിലുകളുടെയും കത്തുകളുടെയും അമിതമായ വിവരങ്ങൾ എടുക്കുക നിങ്ങൾ മറുപടി നൽകേണ്ട ഫോൺ കോളുകൾ വന്ന് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു മെസഞ്ചർ അപ്ഡേറ്റ് ചെയ്യുന്നു അത് നിങ്ങൾക്ക് വരുന്നു നിങ്ങൾക്ക് വരുന്ന ഫേസ്ബുക്ക് അപ്ഡേറ്റുകൾ എന്നിട്ട് നിങ്ങൾ എത്ര കാര്യങ്ങൾ ചെയ്യുന്നു പ്രതികരിക്കും തുടർന്ന് ഗൃഹപാഠം അസൈൻമെന്റുകൾ തുടർന്ന് നിങ്ങൾക്കുള്ള ജോലികൾ ചെയ്യുന്നതും അതിനുപുറമെ നിങ്ങൾ ചെയ്യേണ്ട വ്യക്തിപരമായ കാര്യങ്ങളും അതിനാൽ നിങ്ങൾ ടൈപ്പ് എ ടൈപ്പ് ബി അല്ലെങ്കിൽ ടൈപ്പ് എബി ആകട്ടെ എല്ലാ കാര്യങ്ങളും നിങ്ങളെ സമ്മർദ്ദത്തിലാക്കും നിങ്ങളുടെ വ്യക്തിത്വത്തെ ആശ്രയിച്ച് നിങ്ങൾക്ക് കൂടുതൽ സമ്മർദ്ദമോ കുറവോ ഉണ്ടാകില്ല നിങ്ങൾ സമ്മർദ്ദത്തിലാകാൻ പോകുന്നതിനാൽ അതിനെക്കുറിച്ച് വ്യക്തമായി പറയുക ഇപ്പോൾ അടുത്ത കാര്യം നിങ്ങൾ ഒരു ടൈപ്പ് എ ആണോ അതോ ടൈപ്പ് ബി ആണോ എന്ന വസ്തുത പരിഗണിക്കാതെ തന്നെ നിങ്ങൾക്ക് സമ്മർദ്ദം ഉണ്ടാകാൻ പോകുകയാണെങ്കിൽ നിങ്ങൾ അത് എങ്ങനെ കൈകാര്യം ചെയ്യും അതിനുമുമ്പ് നമ്മൾ ചോദിക്കേണ്ട മറ്റൊരു ചോദ്യം സമ്മർദ്ദം നല്ലതാണോ ചീത്തയാണോ എന്നതാണ് സമ്മർദ്ദം എല്ലായ്പ്പോഴും മോശമായ ഒന്നാണ് എന്ന തെറ്റിദ്ധാരണയാണ് ചില ആളുകൾക്കുള്ളത് സമ്മർദ്ദം എങ്ങനെ നല്ലതായിരിക്കുമെന്ന് ആളുകൾ ചിന്തിക്കുന്നു ഓർക്കുക നിങ്ങളെ ഊഷ്മളമാക്കാൻ ആവശ്യമായ ചില സമ്മർദ്ദങ്ങൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു പ്രസംഗം നൽകേണ്ടതുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ തൊണ്ട എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് സാധാരണമാണ് വരണ്ടുപോകുന്നു ചിലപ്പോൾ ഇടയ്ക്കിടെ ബാത്ത്റൂമിൽ പോകാൻ തോന്നിയേക്കാം ചിലപ്പോൾ നിങ്ങളുടെ പേന ഉപയോഗിച്ച് കളിക്കാൻ നിങ്ങൾക്ക് തോന്നിയേക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ കൈകൾ പോയി എന്തെങ്കിലും ചെയ്തേക്കാം വാക്കേതര ആശയവിനിമയത്തിന്റെ കാര്യത്തിൽ അത്ര നല്ലതല്ലാത്ത എന്തെങ്കിലും നിങ്ങൾ ചെയ്തേക്കാം എന്നിട്ടും നിങ്ങൾ നേരിയ സമ്മർദ്ദത്തിലാണ് എന്ന് ഇത് സൂചിപ്പിക്കുന്നു എന്നാൽ ആ സമ്മർദ്ദമാണ് ഈ പോരാട്ടത്തിനോ പറക്കൽ പ്രതികരണത്തിനോ നിങ്ങളെ പ്രേരിപ്പിക്കുകയും അത് നിങ്ങളെ ചൂടാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു നിങ്ങളെ ചൂടാക്കാൻ നിങ്ങൾ ആ സമ്മർദ്ദം ഉപയോഗിക്കുന്നില്ലെങ്കിൽ മറ്റൊരു വശമുണ്ടെന്ന് മനസ്സിലാക്കുക മനുഷ്യൻ സ്വാഭാവികമായും മടിയനാണെന്ന് മനുഷ്യരെക്കുറിച്ച് അതിനർത്ഥം മനുഷ്യർ പൊതുവേ നിങ്ങൾ ഒരു ജോലിയും നൽകുന്നില്ലെങ്കിൽ നിങ്ങൾ സമ്മർദ്ദം ചെലുത്തുന്നില്ലെങ്കിൽ അവർ മടിയന്മാരായിരിക്കാൻ പ്രവണത കാണിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം വളരെ കഠിനാധ്വാനം ചെയ്യുന്ന ആളുകളുടെ കാര്യമോ വളരെയധികം പ്രചോദിതരായവർ യഥാർത്ഥത്തിൽ അവർ ഒരു ദയ സൃഷ്ടിച്ചതിനാൽ അവർ വളരെ കഠിനാധ്വാനം ചെയ്യുന്നു എന്നത് ശരിയാണ് വളർച്ചാ മാനസികാവസ്ഥയെക്കുറിച്ച് അവർ സ്വയം യാഥാർത്ഥ്യമാക്കാനുള്ള വഴികളിലാണ് എന്നാൽ നമുക്ക് പറയാം നിങ്ങൾ അവർക്ക് ഒരു ചോയ്സ് നൽകിയാൽ ജോലിയില്ലാതെ ഇവയെല്ലാം നിങ്ങൾക്ക് നൽകാൻ ഞാൻ നിങ്ങളെ അനുവദിക്കുന്നു എന്നിട്ട് നിങ്ങൾ വിശ്രമിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ താമസിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ അതിനാൽ ആരെങ്കിലും ആണെന്ന് കരുതുക ലക്ഷ്യം ഒരു ഭൌതിക ലക്ഷ്യം മാത്രമാണ് ഉദാഹരണത്തിന് എനിക്ക് ഒരു കാർ വാങ്ങണം അതിനാൽ ഞാൻ നിങ്ങൾക്ക് ഈ കാർ സമ്മാനിക്കുകയാണെന്ന് നിങ്ങൾ പറയുന്നു അതുമാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിലെ അവസാനമെങ്കിൽ നിങ്ങൾ എന്തുചെയ്യും ഇപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ മനുഷ്യൻ മടിയനാകുന്നു അത് നൽകിയതിന് ശേഷം നിങ്ങൾ സമ്മർദ്ദം ചെലുത്തുന്നില്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ അവശേഷിക്കുന്നു നിങ്ങളല്ല നിങ്ങൾ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു ബംഗ്ലാവ് വേണമെങ്കിൽ നിങ്ങൾ ഇതുപോലെ ജോലി ചെയ്യണം എന്റെ വീട്ടിൽ 16 മണിക്കൂർ അടുത്ത 5 വർഷത്തേക്ക് ഈ ജോലി ചെയ്തുകൊണ്ട് ഞാൻ ഒരു ബംഗ്ലാവ് നൽകാൻ പോകുന്നു അപ്പോൾ നിങ്ങൾ ആ വ്യക്തിയെ തള്ളുകയാണ് ചെയ്യുന്നത് നിങ്ങൾ യഥാർത്ഥത്തിൽ ആ വ്യക്തിയെ അങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത് അവൻ സ്വയം പരീക്ഷിക്കാൻ ആഗ്രഹിക്കുന്നതുപോലെ നിങ്ങൾ പറയുന്ന ഒരു നേരിയ സമ്മർദ്ദവും നിങ്ങൾ നൽകുന്നു എനിക്ക് 13 മുതൽ 16 മണിക്കൂർ വരെ ജോലി ചെയ്യാൻ കഴിയുമോ എനിക്ക് ഈ ജോലി ചെയ്യാൻ കഴിയുമോ 5 വർഷത്തിനുള്ളിൽ എനിക്ക് ഇത് ചെയ്യാൻ കഴിയുമോ ഇപ്പോൾ മനുഷ്യനെക്കുറിച്ച് മറ്റൊരു പ്രവണതയുണ്ട് അത് പാർക്കിൻസൺസിൽ വളരെ നന്നായി പറഞ്ഞിട്ടുണ്ട് ഒരുതരം പഴഞ്ചൊല്ലായി മാറിയ നിയമം ജോലി വികസിക്കുന്നു അത് പൂർത്തിയാക്കാൻ ലഭ്യമായ ആ സമയം നികത്താൻ എന്താണ് ചെയ്യുന്നത് എന്ന് അത് പറയുന്നു അർത്ഥമാക്കുന്നത് നിങ്ങൾക്ക് ഒരു സമയപരിധി നൽകിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അസൈൻമെന്റ് ഉണ്ടെന്ന് നിങ്ങളോട് പറയും പക്ഷേ നിങ്ങൾ 15 ദിവസത്തിന് ശേഷം ഇത് നൽകാം ഇപ്പോൾ അസൈൻമെന്റ് സമയമെടുക്കുന്നത് ഒരു മണിക്കൂർ മാത്രമാണ് എന്നാൽ നിങ്ങൾക്ക് 15 ദിവസമുണ്ടെന്ന് അറിഞ്ഞുകഴിഞ്ഞാൽ സമയം ജോലി നീളുന്നു ഞാൻ ഇന്ന് അതിൻ്റെ കുറച്ച് ഭാഗം ചെയ്യുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിലും എനിക്ക് അതിൻ്റെ കുറച്ച് ഭാഗം കൂടി ചെയ്യാൻ കഴിയും അടുത്ത ആഴ്ചയും തുടർന്നും തുടർന്ന് 14 ാം രാത്രി അല്ലെങ്കിൽ 15 ാം പ്രഭാതം വരെ നിങ്ങൾ ഇപ്പോഴും ജോലി ചെയ്യും ആ നിയമനത്തിൽ അതിനാൽ പാർക്കിൻസൺസ് നിയമത്തിൽ നിർദ്ദേശിക്കുന്നത് ഇതാണ് നിങ്ങൾക്കുള്ള ജോലി നീട്ടും അത് പൂർത്തിയാക്കാൻ ലഭ്യമായ സമയം വരെ സമയം ചുരുങ്ങിയെന്ന് നിങ്ങൾ പറയുമ്പോൾ എല്ലാം മാറുന്നു ഉദാഹരണത്തിന് നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഏത് തരത്തിലുള്ള സമയപരിധിയും അത് ആണെന്ന് നിങ്ങൾക്കറിയാം അവസാന സമയപരിധി അതിനാൽ നിങ്ങൾ കഴിയുന്നത്ര ജോലിയിൽ ഏർപ്പെടാൻ ശ്രമിക്കും എന്നാൽ അവർക്ക് എന്നെ അറിയാമെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ചിന്തയുണ്ടെങ്കിൽ അവർ സമയപരിധി നീട്ടും മറ്റൊരു 15 ദിവസം കൂടി നൽകാം മറ്റൊരു 1 മാസം കൂടി നൽകാം അപ്പോൾ നിങ്ങളുടെ ജോലി അതിനനുസരിച്ച് വികസിക്കും ലഭ്യമായ സമയം വരെ ഇപ്പോൾ ഞാൻ ഇതിലൂടെ പറയാൻ ശ്രമിക്കുന്നത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ജോലി സമയം ആണെങ്കിൽ കുറഞ്ഞാൽ അത് നിങ്ങൾക്ക് കുറച്ച് സമ്മർദ്ദം നൽകും ജോലി സമയം വിപുലീകരിക്കുമ്പോൾ അത് നൽകില്ല നിങ്ങൾ അവസാന നിമിഷം വരെ സമ്മർദ്ദം ചെലുത്തുകയും തുടർന്ന് വീണ്ടും കൂട്ടുകയും ചെയ്തില്ലെങ്കിൽ നിങ്ങൾ വളരെയധികം സമ്മർദ്ദം ചെലുത്തുന്നു കുറച്ച് സമ്മർദ്ദം എന്നാൽ മറുവശത്ത് ജോലി സമയം കുറയ്ക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് കുറച്ച് സമ്മർദ്ദം നൽകുന്നു സമ്മർദ്ദം നിങ്ങൾക്ക് കൃത്യസമയത്ത് പ്രവർത്തിക്കാൻ നല്ലതാണ് അതില്ലാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ഭൌതികശാസ്ത്രത്തിൽ പോലും ഇത് ചലനരഹിതമായി തുടരുന്ന ഒരു വസ്തു ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ജഡത്വാവസ്ഥയിലാണെങ്കിൽ മറ്റെന്തെങ്കിലും ഇല്ലെങ്കിൽ അത് ജഡത്വാവസ്ഥയിൽ തുടരും ശരീരം കൂട്ടുകെട്ടിലേക്ക് വരുന്നു എന്തോ വന്ന് അതിനെ തള്ളുന്നു അതിനാൽ ജഡത്വം തകർക്കുന്നതിനും നിങ്ങളെ ഒഴുക്കിലേക്ക് നയിക്കുന്നതിനും സമ്മർദ്ദം ആവശ്യമാണ് ഇപ്പോൾ നിങ്ങളെ ഒഴുക്കിലേക്ക് നയിക്കാൻ ആവശ്യമായ ഇത്തരത്തിലുള്ള സമ്മർദ്ദത്തെ ഞങ്ങൾ വിളിക്കുന്നു നല്ല സമ്മർദ്ദം അല്ലെങ്കിൽ യൂസ്ട്രസ് പോലെ അതിനാൽ ഇയു യഥാർത്ഥത്തിൽ നല്ലത് എന്നതിന്റെ മറ്റൊരു പ്രിഫിക്സ് ആണ് തുടർന്ന് അത് നല്ലത് സൂചിപ്പിക്കുന്നു അതിനാൽ സമ്മർദ്ദവും നല്ലതാണ് തുടർന്ന് അത് പോസിറ്റീവ് ആകാം ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് സമ്മർദ്ദം അനുഭവപ്പെടുന്നുണ്ടെങ്കിലും നല്ലതോ ചീത്തയോ ആകട്ടെ നിങ്ങൾ ദയയുള്ളവരായിരിക്കും എപ്പോൾ വേണമെങ്കിലും പോരാട്ടം അല്ലെങ്കിൽ പറക്കൽ തരത്തിലുള്ള സാഹചര്യം നേരിടേണ്ടിവരുന്ന സാഹചര്യം നിങ്ങൾക്ക് ആ സമ്മർദ്ദം ലഭിക്കുന്നു അതിനാൽ ശരീരം ഒന്നുകിൽ പ്രതികരിക്കണം നേരിടണം പോരാടണം അല്ലെങ്കിൽ സാഹചര്യത്തിൽ നിന്ന് ഓടിപ്പോകണം ഇപ്പോൾ രണ്ട് സാഹചര്യങ്ങളിലും ശരീരം അഡ്രിനാലിൻ പമ്പ് ചെയ്യും അതിനാൽ ഇത് നിങ്ങളുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആ ഹോർമോണിനെ സ്രവിക്കുകയും നിങ്ങൾക്ക് അധിക ഊർജ്ജം നൽകുകയും ചെയ്യുന്നു അല്ലാത്തപക്ഷം നിങ്ങൾ പൂർത്തിയാക്കുമായിരുന്നില്ല ആ ദൌത്യം അതിനർത്ഥം നിങ്ങളുടെ ശരീരത്തെ ഉത്തേജിപ്പിക്കുന്ന ആ ഹോർമോൺ സ്രവം ഉണ്ടാക്കാൻ സമ്മർദ്ദം ആവശ്യമാണ് എന്നാണ് ഊർജ്ജം ഒന്നുകിൽ നിങ്ങൾ അതിൽ നിന്ന് ഓടിപ്പോകാൻ ആഗ്രഹിച്ചാലും അല്ലെങ്കിൽ നിങ്ങൾ അത് ചെയ്യാൻ ആഗ്രഹിച്ചാലും അതിനാൽ നിങ്ങൾക്ക് യുദ്ധം ചെയ്യാനോ പറക്കാനോ താൽപ്പര്യമുണ്ടെങ്കിലും രണ്ട് വഴികളും അത് നിങ്ങളെ സഹായിക്കും എന്നാൽ തീർച്ചയായും ഈ സാഹചര്യത്തിൽ നിങ്ങൾ പറക്കുകയല്ല പോരാട്ടമാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് നിങ്ങൾക്കറിയാം നിങ്ങളുടെ ജോലിയിൽ നിശ്ചയദാർഢ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സമ്മർദ്ദം നിങ്ങളെ സഹായിക്കും ഓ എനിക്ക് കുറച്ചുകാലത്തേക്ക് വ്യതിചലിക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം എനിക്ക് കാണാൻ കഴിയും കുറച്ചുകാലം ടി എന്നാൽ ഒരു സമയപരിധി പൂർത്തിയാക്കുന്നതിൽ സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും നിശ്ചയിച്ചു നിങ്ങളിൽ ചിലർ തെളിയിക്കുന്നത് നിങ്ങൾക്ക് പതിനൊന്നാം മണിക്കൂറിലെ യജമാനന്മാരാകാൻ കഴിയുമെന്ന് അതിൻറെ അർത്ഥമെന്താണ് അവസാന നിമിഷം ജോലി ചെയ്യുന്നതിനെ സൂചിപ്പിക്കുന്നതിനുള്ള ഭാഷയാണ് പതിനൊന്നാം മണിക്കൂർ നിങ്ങൾ പതിനൊന്നാം മണിക്കൂറിൽ പ്രാവീണ്യമുള്ളവരാണ് എന്നതിനർത്ഥം നിങ്ങൾ അവസാന നിമിഷം പ്രവർത്തിക്കുന്നതിൽ വിദഗ്ധരും ഇപ്പോഴും ഏറ്റവും മികച്ചത് ചെയ്യുന്നവരുമാണ് എന്നാണ് പിന്നെ അവസാന നിമിഷം സമ്മർദ്ദത്തിൽ ജോലി ചെയ്യുകയും പിന്നീട് അത് നേടാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട് അവരുടെ എല്ലാ ഊർജ്ജവും വിനിയോഗിച്ചുകൊണ്ട് അവരെല്ലാം പരിഹാരത്തിനുള്ള സൃഷ്ടിപരമായ വഴികൾ കണ്ടെത്താനും ശ്രമിക്കുന്നു ആ സമ്മർദ്ദത്തിൽ പോലും ആ സമ്മർദ്ദത്തിൽ പോലും ഒരു പ്രശ്നം ഈ നല്ല സമ്മർദ്ദം ഈ യൂസ്ട്രസ് പീക്ക് അനുഭവം എന്ന് ഞങ്ങൾ വിളിക്കുന്ന കൊടുമുടികൾ അനുഭവിക്കാൻ നിങ്ങളെ സഹായിക്കുന്നു ഉദാഹരണത്തിന് നിങ്ങൾ ഏതുതരം നല്ല സമ്മർദ്ദം അനുഭവിക്കുന്നു ഒരു വിദേശരാജ്യത്തെ മികച്ച ജോലി പോലെയുള്ള ഒരു കേസ് എടുക്കുക നിങ്ങൾ എല്ലായ്പ്പോഴും യുകെയിൽ ഒരു ജോലി സ്വപ്നം കാണുകയും പിന്നീട് നിങ്ങൾക്ക് അത് ലഭിക്കുകയും ചെയ്തതിനാൽ നിങ്ങൾ പോകുന്നു ഇപ്പോൾ അത് നിങ്ങൾക്ക് സമ്മർദ്ദം നൽകും നിങ്ങൾക്ക് വിസ ലഭിക്കണം നിങ്ങൾ നല്ല സ്ഥലം കണ്ടെത്തണം നിങ്ങൾ നല്ല ഭക്ഷണം കണ്ടെത്തണം നിങ്ങൾ പാചകം പഠിക്കണം നിങ്ങൾ നല്ല സുഹൃത്തുക്കളെ ഉണ്ടാക്കണം പുതിയ അന്തരീക്ഷത്തിൽ ഒരു നല്ല മതിപ്പ് സൃഷ്ടിക്കേണ്ടതുണ്ട് ഇതാണ് സമ്മർദ്ദം എന്നാൽ ഇത് യൂസ്ട്രസ് ആണ് ഇത് പോസിറ്റീവ് ആണ് വിവാഹം കഴിക്കുന്നത് ഒരു പോസിറ്റീവ് കാര്യമാണ് പക്ഷേ വിവാഹം വരെ വിവാഹത്തിന് ശേഷം ഒരു പുതിയ വ്യക്തിയുമായി ഞാൻ എങ്ങനെ മാറും ഒരു പുതിയ അന്തരീക്ഷത്തിൽ ഞാൻ എങ്ങനെ മാറും അതിനാൽ ഇവയെല്ലാം നിങ്ങൾക്ക് ഒരുതരം സമ്മർദ്ദം നൽകുന്നു ചുരുക്കത്തിൽ ഏത് വെല്ലുവിളി നിറഞ്ഞ ലക്ഷ്യവും കൈവരിക്കുന്നത് നിങ്ങൾക്ക് ഒരുതരം പോസിറ്റീവ് സമ്മർദ്ദം നൽകും പ്രത്യേകിച്ചും നിങ്ങൾ വെല്ലുവിളി തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ തുടർന്ന് നിങ്ങൾ അത് അതിന്റെ ഭാഗമായി കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതവും കരിയറും ഇപ്പോൾ മോശം സമ്മർദ്ദമാണ് നിങ്ങൾക്ക് വിഷമം നൽകുന്നത് ഇപ്പോൾ മോശം സമ്മർദ്ദം എന്തുചെയ്യും മോശം സമ്മർദ്ദം അത് നിങ്ങൾക്ക് കോപം നൽകുമെന്ന് ഭയപ്പെടുത്തും അത് നിങ്ങളെ ഭയപ്പെടുത്തും ഇത് നിങ്ങൾക്ക് ഉത്കണ്ഠയുണ്ടാക്കുകയും നിങ്ങൾക്ക് പിരിമുറുക്കം നൽകുകയും നിങ്ങളുടെ ശരീരത്തെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും അല്ലെങ്കിൽ മനസ്സ് ഇപ്പോൾ മോശം സമ്മർദ്ദത്തോടെ പഴഞ്ചൊല്ല് പറയുന്നതുപോലെ നിങ്ങൾ അവസാന നിമിഷം ജോലി ചെയ്യുകയാണെങ്കിൽ തിടുക്കം പാഴാക്കുക നിരവധി തെറ്റുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ അത് പൂർത്തിയാക്കാൻ കണക്കാക്കിയ സമയത്തേക്കാൾ കൂടുതൽ സമയമെടുക്കും പ്രത്യേകിച്ചും നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ സമ്മർദ്ദം ലഭിക്കുന്നു ഒരു ജോലി അപൂർണ്ണമായി ഉപേക്ഷിക്കുന്നതിനോ അപൂർണ്ണമായ ഒരു ജോലി സമർപ്പിക്കുന്നതിനോ ഉള്ള അപകടസാധ്യതയും നിങ്ങൾക്ക് കൂടുതൽ നൽകും യഥാർത്ഥത്തിൽ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് നിങ്ങൾക്ക് അറിയില്ല തലച്ചോറ് അത് ഒരു തരത്തിലുള്ള ആവേഗമായി മാറിയെന്ന് കരുതുന്നില്ല പിന്നെ ഇത്തരത്തിലുള്ള സമ്മർദ്ദം നിങ്ങൾ ആരംഭിക്കുമെന്ന് ഞാൻ പറഞ്ഞതുപോലെ ദിനചര്യയെ വീണ്ടും തടസ്സപ്പെടുത്തും കൂടുതൽ കഴിക്കുക അല്ലെങ്കിൽ നിങ്ങൾ കാലാനുസൃതമല്ലാത്ത രീതിയിൽ ജങ്ക് ഫുഡ് കഴിക്കും തുടർന്ന് നിങ്ങൾ ഉറക്കത്തിലും വളരെയധികം അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു മൊത്തത്തിലുള്ള അനിയന്ത്രിതമായ സമ്മർദ്ദം മാനസിക വിഷാദത്തിലേക്കും മറ്റ് മാനസിക പ്രശ്നങ്ങളിലേക്കും നയിച്ചേക്കാം വളരെയധികം സമ്മർദ്ദത്തിലായതിനാൽ ആളുകൾ ആത്മഹത്യ ചെയ്യുന്നു രക്തസമ്മർദ്ദം ഹൃദയാഘാതം സ്ട്രോക്ക് പൈൽസ് അൾസർ തുടങ്ങിയ ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ ക്യാൻസർ മുതലായവയെല്ലാം മോശം സമ്മർദ്ദം മൂലമാണ് ഉണ്ടാകുന്നത് ഇപ്പോൾ വരുന്ന പ്രഭാഷണത്തിൽ നമുക്ക് ഇത് എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് കാണാൻ ശ്രമിക്കും ഞാൻ നിങ്ങളെ വിടുന്നതിനുമുമ്പ് രണ്ട് നല്ല ചിന്തകളുമായി അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുഃ ഒരാൾ മനസ്സിലാക്കുന്നു ഹാൻസ് സെലി ചൂണ്ടിക്കാണിച്ചതുപോലെ നമ്മെ കൊല്ലുന്നത് സമ്മർദ്ദമല്ല അതിനുള്ള നമ്മുടെ പ്രതികരണമാണ് അതിനാൽ ഇത് എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് നോക്കാം മറ്റൊരു ആശയം സമ്മർദ്ദത്തിന്റെ പ്രധാന കാരണം കണ്ടെത്താനുള്ള ആളുകളുടെ കഴിവില്ലായ്മയാണ് യഥാർത്ഥ സ്വഭാവം നിങ്ങളുടെ സമ്മാനങ്ങൾ കണ്ടെത്തുക അവ പിന്തുടരുക നിങ്ങൾക്ക് ഒരിക്കലും സമ്മർദ്ദം അനുഭവപ്പെടില്ല നന്ദി ഞാൻ തിരികെ വരും തുടർന്ന് ഇത് എങ്ങനെ നിയന്ത്രിക്കാമെന്ന് ചർച്ച ചെയ്യും വരാനിരിക്കുന്ന പ്രഭാഷണത്തിൽ നമ്മുടെ വ്യക്തിത്വം മെച്ചപ്പെടുത്തുന്നതിന് നിങ്ങൾക്ക് എങ്ങനെ സമ്മർദ്ദം ഉപയോഗിക്കാം